നാം അടിസ്ഥാന വികാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു കഴിഞ്ഞു അവയെ രണ്ടോ മൂന്നോ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നും ഇനി മനസ്സിലാക്കാം എല്ലാ വികാരങ്ങളും അടിസ്ഥാനപരമായി മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് നാം കണ്ടു കഴിഞ്ഞു പല അടിസ്ഥാന വികാരങ്ങളും സാർവത്രികമായി ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വികാരങ്ങളാണ് എന്ന് നമുക്കറിയാം സാർവത്രിക വികാരങ്ങൾ എന്നാൽ സംസ്കാരത്തിനും മുഖഭാവങ്ങൾക്കും അപ്പുറം സമാനമായ അടിസ്ഥാന സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് സന്തോഷം സങ്കടം ഭയം ദേഷ്യം അൽഭുതം വെറുപ്പ് എന്നിവയാണ് ആണ് അടിസ്ഥാന വികാരങ്ങൾ എന്ന് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം നാം കണ്ടു ഈ അടിസ്ഥാനമായ അടിസ്ഥാനപരമായ ആറു വികാരങ്ങളും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മുഖഭാവങ്ങൾ എല്ലാ സംസ്കാരങ്ങളിലും ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ സമാനവും സാർവത്രികവുമായ ഭാവപ്രകടനങ്ങൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങളെ ഒരേ പോലെ സമാനമായ ഭാവപ്രകടനങ്ങൾ ഉണ്ടാക്കുന്നതരത്തിൽ ജൈവശാസ്ത്രപരമായി എല്ലാ പ്രോഗ്രാം ചെയ്തു വച്ചിരിക്കുകയാണോ അതു കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യശിശു അവൻറെ മുഖത്തിലൂടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ലൂയിസ് ഒരു വികസന സിദ്ധാന്തം നിർദേശിക്കുകയും അതിൻറെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു സന്തോഷം ഭയം ദുഃഖം ദേഷ്യം അൽഭുതം വെറുപ്പ് എന്ന അടിസ്ഥാനവികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു വൈജ്ഞാനിക ഗുണവിശേഷം അടിസ്ഥാനപരമായി കുട്ടികളിൽ ജന്മസിദ്ധമായി തന്നെ ഉണ്ട് ലൂയിസിന്റെ വികസന സിദ്ധാന്തവും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്ജന്മസിദ്ധമായി തന്നെ അടിസ്ഥാനവികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശിശുക്കളിൽ കഴിവ് ഉണ്ടെന്നാണ് വൈജ്ഞാനിക വികാസത്തിന് ഫലമായി കുട്ടി ഇത്തരത്തിലുള്ള അടിസ്ഥാന വികാരങ്ങൾ ആർജിച്ചിരിക്കുന്നു ഉണ്ടെങ്കിലും പിന്നീട് അവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം കുട്ടി പിന്നീട് ഞാൻ ആരാണെന്നുള്ള ആത്മാവബോധം സൃഷ്ടിച്ചെടുക്കുകയും തുടർന്ന് ജീവിക്കുന്ന സമൂഹം ചുറ്റുപാടുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി അവയെ നിയന്ത്രിക്കുന്ന നിയമങ്ങളും ലക്ഷ്യങ്ങളും എന്താണെന്ന്മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു ഇത്തരം പരിനിഷ്ഠിതമായ നിയമങ്ങളും ലക്ഷങ്ങളും ആണ് എസ് ജി എന്ന് അറിയപ്പെടുന്നത് ലൂയിയുടെ വികസന സിദ്ധാന്തം മുന്നോട്ടു വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ എന്താണെന്നുവെച്ചാൽ എന്നാൽ ഒരു വ്യക്തി ആദ്യമേ ആത്മബോധം നേടിയെടുക്കുന്നു പിന്നീട് അവൻ ജീവിക്കുന്ന സമൂഹത്തിനു അനുസരിച്ച് അവൻ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ആത്മാവബോധം നേടിയെടുത്ത ശേഷം അവൻ മനസ്സിലാക്കുകയാണ് സമൂഹം എന്നിൽനിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് അസൂയസഹാനുഭൂതിസംഭ്രമംഅഭിമാനംലജ്ജ എന്നീ വികാരങ്ങളുടെ കാര്യം തന്നെ ഉദാഹരണമായെടുക്കാം മറ്റുള്ളവരുമായി നിങ്ങളുടെ സ്ഥാനം താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരിക്കലും അനുഭവപ്പെട്ടു എന്നുവരില്ല ഞാൻ എന്താണെന്ന്മനസ്സിലാക്കുകയും എൻറെ കഴിവുകൾ തിരിച്ചറിയുകയും ചെയ്താൽ എനിക്ക് മറ്റൊരാളോട് അസൂയപ്പെടേണ്ടി വരുന്നില്ല സ്വയംഅപരത്വം എന്നിവ ഞാൻ തിരിച്ചറിയുന്നു പക്ഷേ ഒരിക്കൽ എൻറെ ഉള്ളിൽ അസൂയ ജനിച്ചാൽ പിന്നീട് ആ വികാരം ക്രമേണ വളരുന്നു ഇനി എന്നിൽ അഭിമാന ബോധമാണ് വളരേണ്ടത് എങ്കിൽ ഇതിൽ സമൂഹത്തിൽ എൻറെ സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുകയും സമൂഹം അംഗീകരിക്കുന്ന തരത്തിൽ ഞാൻ വളരുകയും ചെയ്താൽ എൻറെ ഉള്ളിൽ അഭിമാനബോധം വളരുന്നു ഇവിടെ രണ്ട് ഘട്ടങ്ങൾ ആയിട്ടുള്ള വൈജ്ഞാനിക വികസനം ആവശ്യം ആകുന്നില്ല എന്ന് മനസ്സിലാക്കാം ആത്മാവബോധം ആർജിക്കുന്നതിനുമുൻപ് ആവിഷ്കൃതമാകുന്ന വികാരങ്ങളും സാന്മാർഗികം ആയ ഒരു ഘടനയോട് ചേരുന്നതിനു മുമ്പുതന്നെ ആർജിക്കുന്ന സഹിഷ്ണുത അസൂയ സഹതാപം തുടങ്ങിയ വികാരങ്ങളും ഒരുപക്ഷേ ശിശുക്കളിൽ ഉണ്ടായേക്കാം ശിശുക്കൾ എങ്ങനെയാണ് അവരുടെ വൈകാരിക പ്രകടനങ്ങൾ ആവിഷ്കരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച രസകരമായ ഒരു വിശദീകരണം ആണിത് ഒരു ശിശുവിൻറെ വൈകാരിക പ്രകടനത്തിൽ നിന്നും നെഗറ്റീവ് വികാരങ്ങളുടെ വേർതിരിക്കൽ വളരെ സങ്കീർണമായ ഒന്നാണ് ഒരു ശിശു കരയുമ്പോൾ അത് ഏത് വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏത് വിഷമകരമായ അവസ്ഥകൾ വരുമ്പോഴും ശിശുക്കൾ കരയുന്നുണ്ട് ശരിയാണ് അവരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ കരച്ചിൽ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഈ ഒരു ഭാവപ്രകടനം ശ്രദ്ധിക്കുക പുരികക്കൊടികൾ ഉയർത്തുകയും വശങ്ങളിലേക്ക് ചുണ്ടുകൾ വലിച്ചു നീട്ടുകയും വായ് വലുതായി തുറക്കുകയും കവിളുകൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു ദേഷ്യവും സങ്കടവും മിശ്രിതമായദേഷ്യവും സങ്കടവും ആണ് ഇവിടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാവം മുതിർന്ന വ്യക്തികളിൽ ദേഷ്യം വെറുപ്പ് തുടങ്ങിയവ മുഖത്ത് പ്രകടിപ്പിക്കുന്നതിനായി പ്രത്യേകം ഭാവങ്ങളുണ്ട് ഇവിടെ കുട്ടി വെറുപ്പും ദേഷ്യവും ഒരുമിച്ചാണ് പ്രകടിപ്പിക്കുന്നത് അത് അവ നെഗറ്റീവ് വികാരങ്ങളാണ് എന്നു കുട്ടിക്ക് അറിയാം ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒന്നിലധികം വികാരങ്ങളുടെ പ്രകടനം ആയിരിക്കാം കുട്ടിയിൽ ഉണ്ടാകുന്നത് ചിത്രത്തിൽ കൊടുക്കുന്ന കുട്ടിയുടെ കരച്ചിലിന്റെ ഭേദങ്ങൾ ശ്രദ്ധിക്കുക ആരംഭത്തിൽ ദുർബലമായ കരയുന്ന കുട്ടി പിന്നീട് അല്പം കൂടി ശക്തമായി കരയുന്നതും പിന്നീട് അതിൻറെ തീവ്രതയിൽ എത്തുന്നതും ആണ് ചിത്രത്തിൽ കാണുക കണ്ണുകൾക്ക് സമീപമുള്ള പേശികളുടെ സങ്കോചം നടക്കുകയും കവികൾ മുകളിലേക്ക് ഉയർത്തി പിടിക്കുകയും ചെയ്താൽസന്തോഷ പ്രകടനം ആണെന്ന് മനസ്സിലാക്കാം അതിയായ സന്തോഷം ഉള്ളിൽ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള ചിരികൾ തമ്മിലുള്ള വ്യത്യാസം എക്മാൻ വിശദീകരിക്കുന്നു നിങ്ങൾക്ക് സന്തോഷം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും പുഞ്ചിരിക്കാൻ സാധിക്കുന്നുണ്ട് ശിശുക്കളുടെ കാര്യത്തിൽ മിതമായ പുഞ്ചിരിയിൽ നിന്നും തീവ്രമായ പുഞ്ചിരിയിലേക്കുള്ള ഭാവപ്രകടനങ്ങൾ വേർതിരിച്ചെടുക്കുക പ്രയാസമാണ് അവ തമ്മിൽ വ്യതിരിക്തതയുടെ ഒരു സാധാരണ രേഖ വരയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ രണ്ടു ചിത്രങ്ങളും നോക്കുക കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രതിനിധീകരിക്കുന്നവയാണിത് ഈ ചിത്രങ്ങൾ രണ്ടുപേരുടെയും മുഖഭാവങ്ങൾ ഒരേ വികാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എങ്കിലും അത് രണ്ട് വ്യത്യസ്തരീതിയിൽ ആണെന്ന് കാണാം അസുഖകരമായ അവസ്ഥയെയാണ് ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് വളരെ സുഖകരമായ സാഹചര്യത്തിൽ ഇരിക്കുന്ന അവസ്ഥകളാണ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് സന്തോഷപ്രകടനത്തിൻറെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ഏതൊരു വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും ശിശുക്കൾ വളരെ വ്യത്യസ്തരാണെന്ന് കാണാം കുട്ടികൾ ഏറ്റവുമധികം അടുത്ത് ഇടപഴകുന്നത് അമ്മമാരും ആയിട്ടാണ് അതുകൊണ്ടുതന്നെ അമ്മയിൽ ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ ഒരുപരിധിവരെ കുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട് അമ്മയുടെ ഭാവങ്ങളും ഭാവഭേദങ്ങളും എല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കണ്ണുകളും വായും ആണ് കുട്ടികളുടെ ഭാവആവിഷ്കരണത്തിൽ മുഖ്യപങ്കുവഹിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമല്ലോ ഒന്നോ രണ്ടോ മാസം പ്രായമുള്ള ശിശുക്കൾ അവരുടെ അച്ഛനെയും അമ്മയെയും നോക്കുമ്പോൾ പ്രധാനമായിട്ടും മുഖം കണ്ണുകൾ വായ എന്നിവിടങ്ങളിലായിരിക്കും ശ്രദ്ധിക്കുക ഇവിടെ നോക്കൂ ഒരു മാസം പ്രായമുള്ള കുട്ടി അമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നു തുടർന്ന് കണ്ണുകൾ എങ്ങനെ മാറുന്നുവെന്നും ശ്രദ്ധിക്കുക തുടർന്ന് തിരികെ അതെ പോയിന്റിൽ തന്നെ തിരികെ എത്തുന്നു മറ്റൊരു ചിത്രത്തിൽ രണ്ട് മാസം പ്രായമുള്ള കുട്ടി പിതാവിനെ നോക്കുന്നു തുടർന്ന് ആരംഭത്തിൽ കുട്ടി നോക്കുന്ന സ്ഥാനത്തു നിന്ന് ഒടുവിൽ എവിടെയെങ്കിലും നോട്ടം എത്തുന്നു എന്നും കാണാം ശിശുക്കൾ മാതാപിതാക്കളെ നോക്കുന്നത് ഇങ്ങനെയാണ് നവജാതശിശുക്കൾക്ക് വ്യത്യസ്ത വൈകാരികപ്രകടനമേഖലകൾ ഉണ്ടെന്ന് ബ്രിഡ്ജസ് വിശദീകരിക്കുന്നു അവയ്ക്ക് കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ജനനസമയത്ത് കുട്ടികൾക്ക് പൊതുവായ ഉദ്യേഗത്തിൻറെയോ ആവേശത്തിത്തിന്റേയോ പ്രകടനതലം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മാസം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ ഈ അവസ്ഥ അസ്വസ്ഥതകളിലേക്ക് ആനന്ദത്തിലേക്ക് വഴിമാറുന്നു ആറാമത്തെ മാസമാകുമ്പോൾ വെറുപ്പ് ദേഷ്യം പേടി എന്നിവ പ്രകടിപ്പിക്കാനായി വ്യത്യസ്തമായ ഭാവങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്നു വികാരങ്ങളും ഓർമയും ശിശുക്കളുടെ കാര്യത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന മുൻപ് ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് വികാര പ്രകടനങ്ങളുടെ കാര്യത്തിൽ വ്യക്തിപരമായ ഘടകങ്ങൾക്ക് പ്രാധാന്യമുണ്ട് 18 മുതൽ 36 മാസം വരെ ഉള്ള കുട്ടികളിൽ ഓർമയുടെയും വികാരങ്ങളുടെയും പ്രവർത്തനം എങ്ങിനെ ആണെന്ന് നോക്കാം കുട്ടികൾ വൈകാരികമായി തന്നെ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു അവരുടെ സംഭാഷണങ്ങളിൽ ചില വാക്കുകൾ ഉപയോഗിക്കുന്നു മൂന്ന് വയസ്സാവുമ്പോഴേക്കും വികാരങ്ങളെ തിരിച്ചറിയുന്നതിനും തങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളെ തിരിച്ചറിയുന്നതിനും കുട്ടികൾക്ക് സാധിക്കുന്നു നാലു വയസ്സാകുമ്പോഴേക്കും കുട്ടികൾക്ക് അടിസ്ഥാന വികാരങ്ങൾ എപ്രകാരം മുഖഭാവങ്ങളിലൂടെയും കൃത്യമായി പ്രകടിപ്പിക്കണം എന്ന് മനസ്സിലാക്കുന്നു ആറു വയസ്സാകുമ്പോഴേക്കും വ്യത്യസ്ത വികാരങ്ങളെ തിരിച്ചറിയുകയും അവയെ വ്യാഖ്യാനിക്കുന്നതിനും കുട്ടി പര്യാപ്തനാകുന്നു കുട്ടികളിലും മുതിർന്നവരിലുംവ്യക്തിപരമായ ലക്ഷ്യങ്ങൾ ആർജിക്കുന്നതിനും അതിനു തടസ്സം നിൽക്കുന്നതും വൈകാരികമായ ഓർമ്മകളാണ് ദത്തയും കനുൻഗോയും നൽകിയ വിശദീകരണവും സീഗാർനിക്കിന്റെ ഓർമ്മയെ കുറിച്ചുള്ള വിശദീകരണങ്ങളും നാം മനസ്സിലാക്കി നിങ്ങളുടെ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതുമായി പ്രവർത്തിക്കുമ്പോൾ മുൻപ് സമാനമായസാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അത് അനുകൂലമോ പ്രതികൂലമോ ആകട്ടെ അത്തരത്തിലുള്ള ഓർമ്മകൾ നിങ്ങളുടെ പിൽക്കാല പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കുട്ടിയോ മുതിർന്ന വ്യക്തിയോ ആകട്ടെ നിങ്ങൾക്ക് നിശ്ചിത ലക്ഷ്യങ്ങൾ നേടാൻ ഉണ്ടെന്നു കരുതുക ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആഹ്ലാദത്തിന് അളവ് എന്തായിരിക്കും നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകും അതോ നിങ്ങൾക്ക് ദുഃഖമോ ദേഷ്യമോ ആയിരിക്കുമോ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ ലക്ഷ്യപൂർത്തീകരണത്തിൽ നിങ്ങളെ പിന്തിരിപ്പിക്കുന്നു നേട്ടമോ തടസ്സമോ എന്നതിനപ്പുറം നിങ്ങളുടെ വ്യക്തിഗതമായ ലക്ഷ്യം ആണെന്നും അതിലേക്ക് എത്തിച്ചേരേണ്ടത് നിങ്ങളുടെ ആവശ്യമാണെന്നും കരുതുന്നതാണ് ഏറ്റവും പ്രധാനം ഇത്തരമൊരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സമാനമായ അവസ്ഥകൾ നമുക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് നാം നേരിട്ട പ്രശ്നങ്ങളും തടസ്സങ്ങളും ഓർമയിലേക്ക് വരുന്നു അവ ലക്ഷ്യ പൂർത്തീകരണത്ത്തെ തടയുന്നു കുട്ടികളിൽ ആകട്ടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടു ഇത്തരത്തിലൊരു വൈകാരികമായ വ്യവഹാരം പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണമായി മാതാപിതാക്കളിൽ നിന്നും ഒരു സമ്മാനം ലഭിക്കുകയോ അവരോടൊപ്പം പുറത്തുപോവുകയോ ചെയ്യുന്നത് അത് വളരെ സന്തോഷകരമായ ഒരു വികാരവും ഓർമ്മയും ആയിരിക്കും ഉണ്ടാക്കുന്നത് വികാരത്തെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം കുട്ടികളിലുണ്ടാകുന്ന വൈകാരികമായ വ്യവഹാരംഅവരുടെ മുൻ അനുഭവങ്ങളെ ഓർമ്മയുമായി ആയി സംയോജിപ്പിക്കുന്നതിൻറെ ഫലമായി ഉണ്ടാകുന്നതാണ് മുൻ അനുഭവത്തിന്റെ ഓർമ്മയിലൂടെ ഉണ്ടാകുന്ന വൈകാരിക പ്രകടനവും അത്തരത്തിൽ അല്ലാതെയുള്ള വൈകാരികപ്രകടനവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മുൻഅനുഭവങ്ങളുടെ ഓർമയിൽ നിന്നുകൊണ്ടുള്ള വൈകാരിക പ്രകടനം തന്നെയാണ് കുട്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ശിശു എന്ന നിലയിൽ വളർന്നുവരുന്ന ഒരു ശിശു എന്ന നിലയിൽ നിങ്ങൾക്ക് വൈകാരികമായ ഭാവപ്രകടനങ്ങൾക്ക് ആവശ്യമായ ശേഷികൾ ഉണ്ട് എന്നാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത് മാത്രമല്ല കുട്ടികൾ എപ്പോഴും മാതാപിതാക്കളെ നോക്കുകയും അവരിൽ നിന്നാണ് വൈകാരിക പ്രകടനങ്ങൾ മാതൃകയാക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കളുടെ വൈകാരിക പ്രകടനത്തിന്റെ സ്വാധീനം ആണോ അതോ സാമൂഹികമായ സ്വാധീനമാണോ കുട്ടികളിൽ കൂടുതലായി ഉള്ളത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എസ് ആർ ജി പ്രകാരം നമ്മൾ ഏതു വികാരമാണ് പ്രകടിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ദേഷ്യം ആണെങ്കിൽ എത്രമാത്രം ഒരു ദേഷ്യം ദേഷ്യം എങ്ങനെ പ്രകടിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു ഉറവിടത്തിത്തെ ആസ്പദമാക്കി ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക അതോ അതിനപ്പുറം ജൈവശാസ്ത്രം ആയ ഒരു കഴിവ് നമുക്കുണ്ടോ ഈ പരസ്യചിത്രം ശ്രദ്ധിക്കുക ഇത് ഒരു ഉൽപ്പന്നത്തിന്റെ പരസ്യം ആണ് പക്ഷേ എങ്ങനെയാണ് മനുഷ്യ കുട്ടി അനുകരിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക Other language 1443 to 1505 നിങ്ങൾ എന്താണ് ഈ വീഡിയോ കാണുന്നത് ആദ്യം പിതാവ് കുട്ടിയെ ശകാരിക്കുന്നു തുടർന്ന് കുട്ടി പിതാവിനെ അനുകരിക്കുകയും അതേ രീതിയിൽ തന്നെ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഒരു പരസ്യചിത്രം ഉദാഹരണമായി എടുക്കാൻ കാരണം പിതാവിൻറെ ഭാവങ്ങളും വൈകാരിക ആവിഷ്കാരവും എല്ലാം കുട്ടി അനുകരി ക്കുന്നുണ്ട് അതായത് കുട്ടികൾ ക്ക് വൈകാരിക ആവിഷ്കാരത്തിന്പര്യാപ്തമായ ഒരു ഒരു മാതൃക അ മാതാപിതാക്കളിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ലഭിക്കുന്നുണ്ട് ഈ വീഡിയോ ദൃശ്യം ശ്രദ്ധിക്കുക മറ്റൊരു ഉദാഹരണമാണ് ആണ് ഇതൊരു സൌന്ദര്യമത്സരത്തിന്റെ വീഡിയോ ദൃശ്യമാണ് വിജയിയുടെയും മറ്റുള്ളവരുടെയും വൈകാരിക പ്രകടനങ്ങൾ ഏതാണ്ട് സമാനമാണെന്ന് കാണാം 1994 ൽ സുസ്മിത സെൻ മിസ്സ് യൂണിവേഴ്സ് കിരീടം നേടിയപ്പോൾ ഉള്ള അവരുടെ വികാരങ്ങളുടെ പ്രകടനമാണ് നിരവധി വനിതകൾ അവരുടെ വികാരങ്ങൾ ഒരേ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് നിങ്ങൾക്കു കാണാം വികാരപ്രകടനത്തെ സംസ്കാരം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് ഇത് പ്രതിനിധീകരിക്കുന്നു സുസ്മിത സെന്നിനെ നിങ്ങൾ കണ്ടു അവരുടെ കൈകൾ ഉപയോഗിച്ച് മുഖത്തിന്റെ ഭാഗം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ആത്യന്തികമായ സന്തോഷം അതിന്റെ പൂർണ്ണതയിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് ചില മോഡലുകൾ സാധാരണയായി ഇത്തരത്തിൽ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതായി കാണാം സുസ്മിതാസെൻ ആകട്ടെ അല്പം അധികം സമയം എടുത്തിട്ടുണ്ട് സൌന്ദര്യം മത്സരവിജയികളെ ആയിരുന്നു ഞാൻ തേടി കൊണ്ടിരുന്നത് അവരുടെ വികാരപ്രകടനങ്ങൾ ആണ് ഞാൻ അന്വേഷിച്ചത് 2014 ലെ മിസ് വേൾഡ് സൌന്ദര്യമത്സരത്തിൽ വിജയിയായ സൌത്താഫ്രിക്കൻ സുന്ദരി വിജയിയായി പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് നോക്കുക സുസ്മിതാസെൻന് സമാനമായ ഭാവങ്ങളാണ് അവരിലും കാണുന്നത് ഇനി നമുക്ക് അല്പം പുറകോട്ടു പോകാം 2012 ലെ മിസ് വേൾഡ് മത്സരത്തിൽ വിജയിയായ ചൈനീസ് സുന്ദരിയെ നോക്കുക ഇന്ത്യ ചൈനസൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ സുന്ദരിമാർ എല്ലാം അവരുടെ ഭാവങ്ങളും വികാരങ്ങളും സമാനമായ രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് ഇത് ശക്തമായ ഒരു സൂചകമാണ് മുൻപ് കണ്ട പരസ്യചിത്രത്തിൽ അച്ഛൻ അച്ഛനെ അനുകരിക്കുന്ന മകനെയാണ് കണ്ടത് സമാനമായ സാംസ്കാരിക പശ്ചാത്തലം ആയിരുന്നില്ല എന്നതുപോലും പരിഗണിക്കാതെ സമാനമായ രീതിയിൽ ഒരേ തൊഴിൽ മേഖലയിൽ ഉള്ള വ്യക്തികൾ സമാനമായ രീതിയിൽ തങ്ങളുടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് സൌന്ദര്യമത്സരത്തിന്റെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാം ഇത് പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമുക്ക് അറിയാവുന്ന സാമൂഹിക നിയമങ്ങളും ആളും വൈകാരിക പ്രകടനത്തെ സ്വാധീനിക്കുന്നുണ്ട് ലൂയിസിന്റെ വികസന സിദ്ധാന്തം പറയുന്നതും ഇതുതന്നെയാണ് രണ്ടാമത്തെ കാര്യം ഇത്തരത്തിലുള്ള സാംസ്കാരികമായ അവസ്ഥകൾ പരിഗണിക്കാതെ തന്നെ ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്ന പരസ്പരം അനുകരിച്ച് നടത്തുന്ന ഭാവപ്രകടനങ്ങൾമുൻ വിഡിയോയിൽ കണ്ട മോഡലുകളെ പോലെ ആദ്യത്തെ പരസ്യചിത്രത്തിൽ കുട്ടി തൻറെ പിതാവിനെ അനുകരിക്കുകയും ദേഷ്യവും വെറുപ്പും എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പിതാവിൽനിന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ തുടർന്നുള്ള മോഡലുകളുടെ വീഡിയോ ചിത്രങ്ങളിൽ അവർ സമാനമായ സാംസ്കാരിക പശ്ചാത്തലം പങ്കിടുന്നവരല്ല എന്നിരുന്നാലും ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നതുകൊണ്ടുതന്നെ അവർ പ്രകടിപ്പിക്കുന്ന വൈകാരിക ഭാവങ്ങളിൽ സമാനത ഉണ്ടാകുന്നുണ്ട് സാംസ്കാരിക പശ്ചാത്തലമോ ലൂയിസിന്റെ എസ് ആർ ജി സിദ്ധാന്തമോ ഇവിടെ പരിഗണിക്കുന്നില്ല എന്നിരിക്കട്ടെ ഒരു മനുഷ്യൻ അവൻറെ ശൈശവദശയിൽ നിന്നും വളർച്ചയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ മുന്നേറുമ്പോൾ ജോലിസംബന്ധമായി പ്രവർത്തിക്കുമ്പോൾ എപ്രകാരമാണ് ഭാവങ്ങൾ ആവിഷ്കരിക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുന്നു മൂന്നാമത്തെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത പ്രഭാഷണത്തിൽ വൈകാരിക പ്രകടനങ്ങളുടെ ആവിഷ്കാരത്തിൽ സംസ്കാരത്തിൻറെ സ്വാധീനം എന്താണ് എന്ന് വിശദീകരിക്കാം